നമുക്ക് അടുത്തത്തിലേക്ക് കടക്കാം എന്താണ് ഡൈവർജൻസ് കണ്ടീഷനുകൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻസ് maxwells equations ഉപയോഗിച്ചപ്പോൾ നമ്മൾ ശരിക്കും ആദ്യത്തെ രണ്ടെണ്ണം മാത്രം ആണ് ഉപയോഗിച്ചത്മറ്റേ രണ്ടെണ്ണം നമ്മൾ തൊട്ടില്ല അപ്പോൾ ഞാൻ സ്പേസിലും ടൈമിലും ഡിസ്ക്രിടൈസേഷൻ ചെയ്തപ്പോൾ മറ്റു കണ്ടീഷനുകൾക്ക് എന്ത് സംഭവിച്ചുഅത് ലംഘിക്കപ്പെട്ടോ അതോ മാനിക്കപ്പെട്ടോ ഉദാഹരണമായി ഈ ഇക്വേഷൻ എടുക്കാം j0 എന്ന് ഇപ്പോൾ അനുമാനിക്കുന്നു ഇനി ഒരു ചാർജ് ഇല്ലാത്ത സ്ഥിതി കൂടി അനുമാനിക്കണം ഞാൻ രണ്ട് വഷത്തും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അതായത് LHS ൽ ഐഡന്റിറ്റി ഇൻ വെക്ടർ കാൽക്കുലസ് ആയിരിക്കും ഇത് എപ്പോഴും 0 ആയിരിക്കും അപ്പോൾ ടൈമിന്റെ അടിസ്ഥാനത്തിൽ D യുടെ ഡൈവർജൻസ് എന്തായിരിക്കും വിദ്യാർത്ഥി കോൺസ്റ്റന്റ് ശരിയാണ് അതായത് ടൈമിൽ D യുടെ ഡൈവർജൻസ് കോൺസ്റ്റന്റ് ആണ് ഉദാഹരണമായി ഇത് 0 കൊണ്ട് തുടങ്ങിയാൽ അത് തന്നെ തുടരും ഇതിന് FDTD യുമായി യാതൊരു ബന്ധവും ഇല്ല ഇത് മാക്സ്വെൽസ് ഇക്വേഷൻ maxwells equation ആണ് പറഞ്ഞു തരുന്നത് ഇനി നമുക്ക് ഞാൻ എഴുതിയ പുതിയ ഇക്വേഷൻ നോക്കാം ഇത് FDTD അനുസരിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം അതേ മറ്റേ ഇക്വേഷൻ എനിക്ക് ന്റെ മൂല്യം എത്രയാണെന്ന് പറഞ്ഞു തരും ടൈമിന്റെ ഫങ്ക്ഷൻ ആവുകയോ ആവാതിരിക്കുകയോ ചെയ്യാം ഈ അവസ്ഥകൾക്ക് കീഴിൽ ഇതാണ് മാക്സ്വെൽസ് ഇക്വേഷൻസ് maxwells equations നമ്മളോട് പറയുന്നത് നമുക്ക് ഈ ഡൈവർജൻസ് കണ്ടിഷൻസ് നെ കുറിച്ചു അല്പം ചിന്തിക്കാം FDTD ഇതിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം അതെങ്ങനെ കഴിയും ആദ്യമായിട്ട് ഇത് കണ്ടിനുഅസ് സ്പേസിലെ അവസ്ഥ ആണ് ഞാൻ ഇത് ഡിസ്ക്രിടൈസ് സ്പേസിൽ നോക്കിയാൽ ഈ സ്റ്റെൻസിൽസിനെ കുറിച്ചും വാരിയബിൾ D യുടെ ഡിസ്ക്രിടൈസ്ഡ് പതിപ്പിനെ കുറിച്ചും എനിക്ക് ചിന്തിക്കേണ്ടി വരും ഏത് പോളറൈസേഷൻ ആണ് ഈ ചോദ്യത്തിന് നല്ല ഒരു ഉത്തരം തരിക ™ ആണോ TE ആണോ TE കാരണം എനിക്ക് ലേക്ക് ആക്സെസ് ഉണ്ടാവും അത്കൊണ്ട് ഈ ഡൈവർജെൻസിനെ എനിക്ക് എളുപ്പത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന രൂപത്തിൽ മൂല്യ നിർണ്ണയം നടത്താൻ സാധിക്കും TM പോളറൈസേഷൻ ആണെങ്കിൽ z ആക്സിസ് കൂടി നോക്കണം ഇതിനെ എന്താണ് ചെയ്യുക എന്ന് നോക്കാം കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഓർമ വരുന്നത് വെക്ടർ കാൽക്കുലസിന്റെ ഏത് സിദ്ധാന്തം ആണ് ഓർമ വരുന്നത് വെക്ടർ ഫീൽഡിന്റെ ഡൈവർജൻസ് ഗോസ്സസ് സിദ്ധാന്തം Gausss theorem അഥവാ ഡൈവർജൻസ് സിദ്ധാന്തം ഡൈവർജൻസ് സിദ്ധാന്തം 2D യിൽ നമ്മളോട് എന്ത് പറയുന്നു ഇതാണ് നമ്മുടെ ഡൈവർജൻസ് സിദ്ധാന്തം ഇത് നിർണ്ണായിക്കാനുള്ള നല്ല ഒരു വഴി ആണ് RHS ൽ D യുടെ ഔട്ട്വേഡ് ഫ്ലക്സ്ഉണ്ട് ഇനി നമുക്ക് ഒരു ഗ്രിഡ് വരക്കാം TE പോളറൈസേഷനിലേക്ക് നമുക്ക് തിരിച്ചു പോവാം അവിടെ അഥവാ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ നമുക്ക് E ക്ക് പകരം D എടുക്കാം ഇവിടെയുള്ള വരിയബിളുകൾ എന്തൊക്കെയാണ് മധ്യത്തിൽ ഉണ്ട് മറ്റു രണ്ട് വാരിയബിളുകൾ ഏതൊക്കെയാണ്

ഇതാണ് എന്റെ ഇതാണ് എന്റെ ഇതാണ് എന്റെ സ്റ്റെൻസിൽ ഇപ്പോൾ എനിക്ക് 2D യിൽ ഡൈവർജൻസ് സിദ്ധാന്തം മൂല്യനിർണ്ണയം നടത്തണംഅതിന് വേണ്ടി എനിക്ക് ഒരു സർഫസും അതിനെ ചുറ്റിപറ്റിയുള്ള ഒരു ലൈനും വേണം എന്താണ് ഇത് ചെയ്യാനുള്ള നല്ല ഒരു വഴി അതിൽ നിന്നും എനിക്ക് മൂല്യനിർണ്ണയം നടത്തണം എന്ന് ഓർമിക്കുക ഇത് നമുക്ക് ഇവിടെ ഒന്ന് വരച്ചു നോക്കാം ഇതാണ് ഇവിടെ ഉള്ള റീജിയൻ Sregion S ഇത് പോലെ ആണ് എനിക്ക് വേണ്ടത് ഏത് തരത്തിൽ ഉള്ള ഗ്രിഡ് അഥവാ ഏത് തരത്തിൽ ഉള്ള റീജിയൻ S ആണ് വേണ്ടത് LHS നമ്മളെ കാര്യമായി സഹായിക്കില്ല RHS ലൈൻ ഇന്റഗ്രൽ ആണ് ഏത് തരത്തിൽ ഉള്ള ഇന്റെഗ്രേഷൻ കോണ്ടൂർ ആണ് നിങ്ങൾ ചിന്തിക്കുന്നത് വിദ്യാർത്ഥി സ്ക്വയർ സ്ക്വയർ എന്നത് തികച്ചും സ്വഭാവികമായ ഒന്നാണ് ഗ്രിഡ് ലൈൻസിന്റെ കൂടെ ഞാൻ എന്റെ കോണ്ടൂർ എടുക്കുകയാണെങ്കിൽ അതെന്നെ സഹായിക്കുമോ ഗ്രീൻ ബോക്സ് S ആണ് അതെടുത്താൽ എനിക്ക് സഹായമാവുമോ ന് എന്ത് സംഭവിക്കും 0ആവില്ല കാരണം അവിടെ Dy ഉണ്ട് അത് 0അല്ല ഇന്റെർപോളേഷൻ വഴി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം ഇതാണ് ഇവിടുത്തെ കൃത്യതയില്ലായ്മ ഇത് എനിക്ക് ഈ പോയിന്റിൽ വെച്ച് നേരിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതായത് Dx ഉള്ള സ്ഥലത്ത് നോർമൽ വെക്ടർ ഏതിലൂടെ ആയിരിക്കും Dx ലൂടെ ഇനി ഞാൻ Dy ലേക്ക് പോയാൽ നോർമൽ വെക്ടർ Dy ലൂടെ കാണിക്കും ഇനി ഇത് ഞാൻ നീട്ടുന്നതിനെ കുറിച്ച് ചിന്തിക്കുക അപ്പോൾ അവിടെ 4 അഡ്ജസന്റ് ഗ്രിഡ്സ് ഉണ്ടാവും അതായത് 4 Yee സെൽസ് ഞാൻ എന്ത് ചെയ്യണം ഇതിനെ എന്ന് വിളിക്കാം ഇത് Dy യും ഇത് Dx ഉം ഇപ്പോൾ എനിക്ക് എന്തിന്റെ സൂചന കിട്ടി സ്ക്വയർ അല്ലെ ഇത് ഞാൻ ഇങ്ങനെ എടുത്താൽ ഓരോ സെന്ററിലും ചില മാഗ്നെറ്റിക് ഫീൽഡ് കിട്ടും അത്പോലെ Dx നും ഞാൻ ചില പേരുകൾ കൊടുക്കണം അതിനെ വേർതിരിച്ചറിയാൻ പുറത്തേക്ക് പോവുന്ന ഇതിനെ എന്ന് വിളിക്കാം ഇത് റെഡ് ബോക്സ് വിടുകയാണ് ഇടത് വശത്തുള്ള ഉള്ളിലേക്ക് വരുന്ന ഈ Dx നെ എന്നും വിളിക്കാം അത് പോലെ ഇതിനെ എന്നും ഇതിനെ എന്നും വിളിക്കാം RHS ന് ഇപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് മൂല്യനിർണ്ണയം നടത്താം Dx ന്റെ മൂല്യം ഏകദേശം കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞു നമ്മൾ FDTD അധികം ഉപയോഗിച്ചില്ല ടൈം ഡെറിവാറ്റീവ്സിനെയും time derivatives സ്പേസ് ഡെറിവറ്റീവ്സിനെയും യോജിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് FDTD ഇതുവരെ നമ്മൾ അത് ചെയ്തില്ല എങ്ങനെയാണ് മൂല്യനിർണയം നടത്തുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ഇക്വേഷൻ ആണ് നമ്മൾ ചെയ്യാൻ നോക്കുന്നത് ഇതാണ് നമ്മളെ സഹായിക്കാൻ പോകുന്നത് എനിക്ക് x പാർട്ടിലേക്കും y പാർട്ടിലേക്കും നോക്കാൻ സാധിക്കും TE സ്റ്റെൻസിലിൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് നമുക്ക് Ex ന്റെയും Ey യുടെയും അപ്ഡേറ്റ് ആയിട്ടുള്ള ഇക്വേഷനുകൾ ഉണ്ട് അതാണ് വേണ്ടത് അപ്പോൾ എന്താണ് നിങ്ങൾ നോഡുകളിലേക്ക് നോക്കിയാൽ ഒരു ഡോട്ട് കാണാം അതാണ് ടൈം ഡെറിവാറ്റീവ് അത് എന്തിനോടാണ് ആനു പാതികമാവേണ്ടത്

നമ്മൾ നേരത്തെ ഓർമിച്ചു വെക്കാൻ പറഞ്ഞത് ഓർമയില്ലേ ടോപ് മൈനസ് ബോട്ടം അപ്പോൾ വാരിയബിളുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് കിട്ടും നിങ്ങൾക്ക് ഓർമ്മ ഇല്ലെങ്കിൽ പ്രശ്നമില്ല നമുക്ക് ഒന്നൂടെ ഡിഫറെൻസ് ഇക്വേഷൻ ഉണ്ടാക്കാം ചെയ്യാം അവസാനമായി എനിക്ക് എന്താണ് വേണ്ടത് ഈ ഇക്വേഷൻ അല്ല ഈ ഇക്വേഷന്റെ ടൈം ഡെറിവേറ്റീവ് ആണ് അതായത് ഞാൻ ഇക്വേഷന്റെ രണ്ട് വശത്തും ടൈം ഡെറിവേറ്റീവ് ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ എന്ത് ചെയ്യും ഞാൻ രണ്ട് വശത്തും എടുത്താൽ എന്ത് സംഭവിക്കും ഓരോന്നിന്റെയും മുകളിൽ ആയി ടൈം ഡെറിവേറ്റീവ് വരും ഈ എക്സ്പ്രഷനുകൾ ഇപ്പോൾ എനിക്ക് അറിയാമോ അറിയാം ഇത് ഞാൻ മൂല്യനിർണ്ണയം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ എക്സ്പ്രഷൻ എടുത്ത് ഇവിടെ യോജിപ്പിച്ചാൽ എനിക്ക് എന്ത് കിട്ടും എല്ലാം നല്ല രീതിയിൽ റദ്ദാക്കപ്പെട്ടു ഇതിന്റെ അർഥം ഈ ചെറിയ സെല്ലിൽ ആയിരിക്കും ഇതെല്ലാ പോയിന്റിലും ശരിയാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം നമ്മൾ എല്ലാ പോയിന്റിലും ഈ ഫീൽഡ്സ് വിലയിരുത്തുന്നില്ല നമ്മൾ ഫൈനൈറ്റ് ഗ്രിഡ്ൽ ആണ് വിലയിരുത്തുന്നത് അത്കൊണ്ട് ഈ S ഗ്രിഡിൽ D യുടെ ഡൈവർജൻസ് ടൈമിന് അനുസരിച്ചു മാറുന്നില്ല എന്ന് വ്യക്തമാണ് അത്കൊണ്ട് ഇത് നമുക്ക് വെറുതെ കിട്ടിയതാണ് എന്ന് പറയാം നമ്മൾ പ്രത്യേകിച്ചു ഒന്നും ചെയ്തില്ല എന്തായിരിക്കും ഇതിന്റെ കാരണം വിദ്യാർത്ഥി അതിന്റെ രൂപകല്പ്ന ഈ e സെല്ലിന്റെ രൂപകല്പന എല്ലാത്തിനെയും പകുതി ഗ്രിഡ്നാൽ സ്റ്റാഗർ ചെയ്യുന്നു രണ്ട് വശങ്ങളായി അവ ഫൈനൈറ്റ് ഡിഫറെൻസസ് എടുക്കുന്നു വിദ്യാർത്ഥി സെന്റർ സെന്റർ ഡിഫറെൻസസ് അങ്ങനെയാണ് ഈ എല്ലാ ഉം വേറൊരു നാൽ റദ്ദാക്കപ്പെടുന്നത് ഡൈവർജൻസ് ടൈമിനനുസരിച്ചു കോൺസ്റ്റന്റ് ആയിരിക്കും ഇത് നമുക്ക് വെറുതെ കിട്ടിയതാണ് ഇത് FDTD യുടെ ഗംഭീര സ്വഭാവങ്ങളിൽ ഒന്നാണ് TM കേസിൽ ഇത് എങ്ങനെ തെളിയിക്കും വിദ്യാർത്ഥി അതേ കാരണം അവിടെ മാത്രമേ ഉള്ളൂ അതേ അവിടെ നമ്മുടെ S നെ xy പ്ലെയിനിൽ എടുക്കാൻ കഴിയില്ല zx പ്ലെയിനിലോ zy പ്ലെയിനിലോഎടുക്കണം പക്ഷെ ഇപ്പോൾ അത് വീണ്ടും എന്നെ സഹായിക്കണം കാരണം എന്റെ E നോട് പെർപെന്റിക്കുലർ ആണ് അതിനാൽ ഡോട്ട് പ്രോഡക്റ്റ് എനിക്ക് 0 തരുന്നു അതേ വിദ്യാർത്ഥി അവിടെ കുറവ് TM ൽ മറ്റു ഡൈവർജൻസ് കണ്ടിഷനുകൾ എളുപ്പം ആയിരിക്കും TE പോളറൈസേഷനിൽ D യുടെ ഡൈവർജൻസ് കോൺസ്റ്റന്റ് ആണെന്ന് കാണിക്കാൻ കഴിയും TM പോളറൈസേഷനിൽ ഡൈവർജൻസ് ഓഫ് മാഗ്നെറ്റിക് ഫീൽഡ് സംരക്ഷിക്കപ്പെടും എന്ന് കാണിക്കാൻ കഴിയും വിദ്യാർത്ഥി അതേ അത് ശരിയാണ് വിദ്യാർത്ഥി ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും TM കേസിൽ എന്താണ് TM കേസ് എടുത്താൽ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇത് എന്തിന്റെ ഫങ്ക്ഷൻ ആണ് കൃത്യമായി പറഞ്ഞാൽ നമുക്ക് ഈ D നോക്കാം എന്താണ് ഡൈവർജൻസ് ഓഫ് D വിദ്യാർത്ഥി 0 സ്വാഭാവികമായും 0 ഇവിടെ ഒന്നും ചെയ്തില്ല കാരണം എന്തിന്റെയോ ഇത് z ന്റെ ഫങ്ക്ഷൻ അല്ല ഇത് ചെയ്യാൻ എളുപ്പമാണ് പക്ഷെ TE യിൽ നിങ്ങൾ ഈ ലൂപ് എടുക്കണം ദിശ എടുക്കണം ഇവിടെ കേൾ എന്തിന്റെ ക്വാണ്ടിറ്റി ആണ് വിദ്യാർത്ഥി H അതാണ് നമ്മൾ ചെയ്തത് വിദ്യാർത്ഥി Refer time 1949മറ്റു ഡൈവർജൻസ് മാക്സ്വെൽസ് divergence Maxwells അതേ മറ്റു ഡൈവർജൻസ് ഇക്വേഷൻ എന്താണ് അതേ ലോജിക് ഉപയോഗിച്ചു ഇത് തനിയെ ത്രിപ്തിപ്പെടുത്തുന്നു കാരണം x ന്റെയും y ന്റെയും ഫങ്ക്ഷൻ ആണ് അത്കൊണ്ട് 0 ആവും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽഡൈവർജൻസ് 0 ആയി ആരംഭിക്കുകയാണെങ്കിൽ ഫൈനൽ ലൈൻ ഏത് തരത്തിൽ ആയിരിക്കും സിമുലേഷൻ മുഴുവൻ 0 ആയി തുടരുമെന്ന് എന്റെ FDTD സ്കീംഉറപ്പ് തരുന്നു അവിടെ തെറ്റ് വരാൻ സാധ്യത ഇല്ല ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അടുത്തതായി നമുക്ക് ന്യൂമറിക്കൽ അനാലിസിസ് ഓഫ് FDTD നോക്കാം